ഈ മൊഡ്യൂളിലേക്ക് സ്വാഗതം അവസാന മൊഡ്യൂളിൽ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിന്റെ effect ആണ് നമ്മൾ കണ്ടത് മുമ്പ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റും അതിനുമുമ്പ് ഇൻപുട്ട് ബയസ് കറന്റും കണ്ടു ഈ ക്ലാസ്സിൽ തെർമൽ ഡ്രിഫ്റ്റ് പോലുള്ള പ്രവർത്തന ആംപ്ലിഫയറിന്റെ കുറച്ച് സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കാണും ഒരു തെർമൽ ഡ്രിഫ്റ്റ് എന്താണ് അതിനാൽ നമുക്ക് സ്ലൈഡ് കാണാം അർദ്ധചാലക ഉപകരണങ്ങളായ തെർമൽ ഡ്രിഫ്റ്റ് സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾക്ക് വിധേയമാണ് ഇത് ഓപ്പറേറ്റിങ് താപനിലയിൽ മാറ്റം വരുത്തുന്നു കാരണം ഈ ഒപ് ആമ്പുകൾ അർദ്ധചാലക ഉപകരണങ്ങളിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒപ് ആംപ്സ് അർദ്ധചാലക ഉപകരണങ്ങളായി കണക്കാക്കപ്പെടുന്നതിനാൽ ഒപ് ആമ്പ് രൂപകൽപ്പന ചെയ്യാൻ നമ്മൾ അർദ്ധചാലക വസ്തുക്കൾ ഉപയോഗിക്കുന്നു നിങ്ങൾ അർദ്ധചാലക വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ അതിൽ വായു ഉണ്ട് അത് പ്രവർത്തന താപനിലയിലെ മാറ്റത്തിനൊപ്പം അതിന്റെ സ്വഭാവത്തെ ചെറുതായി മാറ്റും അതിനാൽ 25 ഡിഗ്രിയിൽ താഴെയുള്ള നമ്മളുടെ സർക്യൂട്ട് നിലനിൽക്കില്ല താപനില 35 ഡിഗ്രിയിലേക്ക് ഉയരുമ്പോൾ ഇതിനെ ഡ്രിഫ്റ്റ് എന്ന് വിളിക്കുന്നു ബയസ് കറന്റ് ഓഫ്സെറ്റ് കറന്റ് ഓഫ്സെറ്റ് വോൾട്ടേജ് എന്നിവ താപനിലയോടൊപ്പം മാറുന്നു അതിനാൽ നിങ്ങൾ ഒരു താപനിലയ്ക്ക് ശൂന്യമാക്കിയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു താപനിലയ്ക്ക് ശരിയാകില്ലെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു ബയസ് കറന്റ് ഓഫ്സെറ്റ് വോൾട്ടേജിനായി ഡ്രിഫ്റ്റ് പാരാമീറ്ററുകൾ വ്യക്തമാക്കാം നിർമ്മാതാക്കൾ ഡാറ്റാഷീറ്റ്ൽ ഉള്ളതുപോലെ ഏതെങ്കിലും പ്രത്യേക ഓപ് ആമ്പിന്റെ അളവ് വ്യക്തമാക്കിയിട്ടുണ്ട് താപനില സെന്റിഗ്രേഡ് മാറ്റത്തിന്റെ ഓരോ ഡിഗ്രിയിലും ഇൻപുട്ട് ഓഫ്സെറ്റ് മാറ്റങ്ങളുടെ അളവിനെക്കുറിച്ച് ഇത് പറയുന്നു ഇപ്പോൾ LM741 ന് ഏറ്റവും മോശം കേസ് ഡ്രിഫ്റ്റ് ഒരു ഡിഗ്രി സെന്റിഗ്രേഡിന് 15 മൈക്രോ വോൾട്ട് ആണ് ഇത് ഒരു മോശം കേസ് ഡ്രിഫ്റ്റാണ് അതിനാൽ സർക്യൂട്ട് 0 മുതൽ 60 ഡിഗ്രി വരെ പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഇൻപുട്ടിന് ഒരു ഡിഗ്രി സെന്റിഗ്രേഡിന് 15 മൈക്രോ വോൾട്ട് വരെ മാറാം ഇത് 60 ഡിഗ്രി താപനില പരിധിയിൽ 0 9 വോൾട്ട് ആണ് അതായത് 0 മുതൽ 60 വരെ 0 9 മില്ലിവോൾട്ടുകളുടെ മാറ്റമുണ്ട് അതിനാൽ നിങ്ങളുടെ output വോൾട്ടേജിനെ ഏത് താപനിലയാണ് അസാധുവാക്കുന്നത് എന്ന് താപ ഡ്രിഫ്റ്റ് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് 100 ന്റെ നേട്ടമുള്ള ഇൻവെർട്ടിംഗ് അല്ലാത്ത ആംപ്ലിഫയർ 25 ഡിഗ്രിയിൽ നൽകിയ ഒരു ഉദാഹരണം നോക്കാം ഒരു ഡിഗ്രി സെന്റിഗ്രേഡിന് 0 15 മില്ലിവോൾട്ട് ഓഫ്സെറ്റ് ഡ്രിഫ്റ്റ ullathinte താപനില 50 ഡിഗ്രിയിലേക്ക് ഉയരുകയാണെങ്കിൽ output വോൾട്ടേജിന് എന്ത് സംഭവിക്കും ഇതൊരു തന്നിരിക്കുന്ന പ്രശ്നമാണ് വിപരീതമല്ലാത്ത ആംപ്ലിഫയറിനുള്ള പ്രശ്നമെന്താണ് ഇതിന് 100 നേട്ടമുണ്ട് അത് 25 ഡിഗ്രി സെന്റിഗ്രേഡിൽ വലിച്ചിടുന്നു നമ്മളുടെ output വോൾട്ടേജ് 0 ശരിയാണ് എല്ലാം ശ്രദ്ധിക്കുന്നു പക്ഷേ താപനില 50 ഡിഗ്രി വരെ ഉയർന്നാൽ output വോൾട്ടേജിനു എന്ത് സംഭവിക്കും ഒരു ഡിഗ്രി സെന്റിഗ്രേഡ് 0 15 മില്ലി വോൾട്ട് ഡ്രിഫ്റ്റിന്റെ ഓഫ്സെറ്റ് വോൾട്ടേജ് ഡ്രിഫ്റ്റ താപനില കാരണം 3 75 മില്ലിവോൾട്ടിന് തുല്യമാകും ഇത് ഒരു ഇൻപുട്ട് മാറ്റമായതിനാൽ ഇത് നേടാൻ Vos തുല്യമായ Vo വോൾട്ടേജ് മാറും പക്ഷേ ഓപ്പൺ ലൂപ്പ് നേട്ടത്തിലേക്ക് Vos 3 75 ആണ് അല്ലെങ്കിൽ അടച്ച ലൂപ്പ് ട്ടത്തിലേക്ക് ആണ് അതിനാൽ നമ്മുടെ output ട്ട്വോൾട്ടേജ് Vo 375 മില്ലിവോൾട്ടനു തുല്യമായിരിക്കും ഇത് output വോൾട്ടേജിലെ ഒരു പ്രധാന മാറ്റത്തെ പ്രതിനിധീകരിക്കുന്നു കാരണം output വോൾട്ടേജിലെ മാറ്റം വളരെ വലിയ ഡ്രിഫ്റ്റാണ് അതിനർത്ഥം പ്രവർത്തന ആംപ്ലിഫയറിന്റെ പ്രവർത്തനത്തെ താപനില വളരെ സ്വാധീനിക്കുണ്ടെന്നാണ് എങ്ങനെയാണ് ഇൻപുട്ട് ഇംപെഡൻസ് സവിശേഷതകൾ ഇൻപുട്ട് പിൻസിലേക്ക് effect ചെയ്യുന്നത് എന്ന് നോക്കാം LM741 ന് 2 മെഗാ ഓമുകളുടെ ഏറ്റവും കുറഞ്ഞ ഇൻപുട്ട് ഇംപെഡൻസ് ഉണ്ട് ഇത് കുറവായി കണക്കാക്കുന്നുവെന്ന് അറിയുക നിരവധി ഒപ് ആമ്പുകൾക്ക് 1 ജിഗാ ഓമ്മിൽ ഇൻപുട്ട് ഇംപെഡൻസ് ഉണ്ട് ഇപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ശ്രേണി ഉയർന്നതോ താഴ്ന്നതോ ആയ വോൾട്ടേജിൽ ഒപ് ആം ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഇൻപുട്ട് പിൻസ് പ്രയോഗിക്കാൻ കഴിയും ഇവയെ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ശ്രേണികൾ എന്ന് വിളിക്കുന്നു ശരിയായി പ്രവർത്തിക്കുന്നില്ല എന്നതിനർത്ഥം ഇത് കേടാകുമെന്നാണ് ഈ സാഹചര്യത്തിൽ പ്ലസ് മൈനസ് 15 വോൾട്ട് ബാധകമാകുമെന്ന് കരുതുക ഇൻപുട്ട് പ്ലസ് മൈനസ് 13 വോൾട്ടുകൾക്ക് താഴെയായിരിക്കണം ഞാൻ പൊതുവായി സംസാരിക്കുന്നത് ഇത് പ്ലസ് മൈനസ് 15 പ്രയോഗിച്ചാൽ എന്റെ ഇൻപുട്ട് വോൾട്ടേജ് പരിധി പ്ലസ് മൈനസ് 13 വോൾട്ട് ആയിരിക്കണം എന്നാണു വലിയ സിഗ്നൽ വോൾട്ടേജ് ഡിസിയിലെ ഒപിയുടെ നേട്ടം നേരത്തെ നമ്മൾ പറഞ്ഞു അത് വീണ്ടും അനന്തമായിരുന്നു യഥാർത്ഥ ലോകത്ത് ഇത് വലുതാണ് പക്ഷേ അനന്തമല്ല സാധാരണ നേട്ടം ഒരു മില്ലി വാട്ടിന് 200 വോൾട്ട് അല്ലെങ്കിൽ 200000 ആണ് ഇപ്പോൾ output വോൾട്ടേജ് സ്വിംഗ് നമുക്ക് എങ്ങനെ നിർവചിക്കാം output പവർ സപ്ലൈ റെയിലുകളിലേക്ക് നീങ്ങുന്നു പ്ലസ് 5 പ്ലസ് 15 മൈനസ് 15 അല്ലെങ്കിൽ നമ്മൾ നൽകിയ വൈദ്യുതി വിതരണത്തന് അനുസരിച്ച് പരമാവധി output വോൾട്ടേജും ലോഡ് കറന്റ്നെ ആശ്രയിച്ചിരിക്കുന്നു ലോഡ് വലുതാണെങ്കിൽ വലിയ output വോൾട്ടേജ് എടുക്കാൻ കഴിയും മിക്ക ഒപ്പ് ആമ്പുകൾക്കും കുറച്ച് വോൾട്ടിനുള്ളിൽ പവർ സപ്ലൈ റെയിലുകളിലേക്ക് മാറാൻ കഴിയും അതായത് 100 മില്ലി വോൾട്ടിനുള്ളിൽ output മാറ്റാൻ കഴിയുന്ന റെയിൽ ടു റെയിൽ ഒപ്പ് ആമ്പുകൾ എന്ന് പ്രത്യേക ഓപ് ആമ്പുകൾ ഉണ്ട് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ഈ പ്രത്യേക ഓപ് ആമ്പുകൾ വാഗ്ദാനം ചെയ്യുന്നു അവിടെ വൈദ്യുതി വിതരണം 6 വോൾട്ടോ അതിൽ കുറവോ ആയിരിക്കും നിങ്ങളുടെ output വോൾട്ടേജ് സ്വിംഗ് അതാണ് Output ഷോർട്ട് സർക്യൂട്ട് കറന്റായ മറ്റൊരു പാരാമീറ്റർ നമുക്ക് നോക്കാം ഒപ് ആമ്പിന് output പിൻയിൽ നിന്ന് എത്രത്തോളം കറന്റ് നൽകാൻ കഴിയുക പരമാവധി കറന്റ് ഡെലിവർ ചെയ്യുമ്പോൾ output വോൾട്ടേജ് 0 വോൾട്ടിനടുത്ത് വീഴാം അതായത് 50 മില്ലി ആമ്പിയറിൽ കൂടുതൽ ഒരു പ്രിയപ്പെട്ട കോമൺ മോഡ് നിരസിക്കൽ അനുപാതം നമ്മൾ കണ്ടു ഒരു സെന്റിമീറ്റർ പൊതുവായ മോഡ് നേട്ടത്തിന്റെ വ്യത്യാസത്തിന്റെ അനുപാതം നമ്മളുടെ പൊതുവായ മോഡ് നിരസിക്കൽ അനുപാതമാണെന്ന് നമ്മൾക്കറിയാം ഒപ്പ് ആമ്പുകൾക്ക് വ്യത്യാസവും ഇൻപുട്ടുകളും വർദ്ധിപ്പിക്കാൻ മാത്രമേ കഴിയൂ അതുപോലെ സാധാരണ മോഡ് നേട്ടമല്ല എന്നാൽ വാസ്തവത്തിൽ ഇത് ഒരു സാധാരണ മോഡ് വോൾട്ടേജാണ് ഇൻപുട്ടുകൾ ഒന്നുതന്നെയാണെങ്കിലും ഒരു ചെറിയ നേട്ടം ഉണ്ടാകും ഈ സാധാരണ മോഡ് നേട്ടം കുറയ്ക്കുന്നതിന് ഒപ് ആമ്പ് എത്രമാത്രം നല്ലതാണെന്ന് സിഎംആർആർ പറയുന്നു 741 സിഎംആർആറിന്റെ ഏറ്റവും മോശം അവസ്ഥ 70 ഡിബി ആണ് സാധാരണയായി ഇത് 90 dB ആണ് അതായത് 300000 എന്നിരുന്നാലും സിഎംആർആർ 300000 ന് മുകളിലുള്ള ചില ഇൻസ്ട്രുമെന്റേഷനും ഡിഫൻസ് ആംപ്ലിഫയറും ഇത് 30000 ആണ് ഇത് എൽഎം 7 4 1 ന് 30000 ആണ് ചില ആംപ്ലിഫയറുകളുടെ കാര്യത്തിൽ അതായത് ചില ഇൻസ്ട്രുമെന്റേഷനും ഡിഫറൻസ് ആംപ്ലിഫയറും ഇത് ഏകദേശം 300000 ആണ് ഇത് വളരെ മികച്ച സിഎംആർആർ ആണ് നമ്മളുടെ output AD into VD ആയിരിക്കും നമ്മൾ മുമ്പ് കണ്ട പ്രശ്നങ്ങൾ നോക്കുമ്പോൾ സിഎംആർആറിൽ തന്നെ നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിച്ചു ഇപ്പോൾ വൈദ്യുതി വിതരണ നിരസിക്കൽ അനുപാതം എന്താണെന്ന് നോക്കാം അതിനെ പിഎസ്ആർആർ എന്ന് വിളിക്കുന്നു ഡാറ്റാഷീറ്റിൽ നിങ്ങൾക്ക് V അറിയാമെങ്കിൽ ഒരു പവർ സപ്ലൈ റിജക്ഷൻ റേഷ്യോ ഉണ്ടായിരുന്നു പവർ സപ്ലൈ വോൾട്ടേജ് റിജക്ഷൻ റേഷ്യോ എന്നാൽ പവർ പിൻസിലേക്ക് വരുന്ന ശബ്ദത്തെ ഒപി ആംപ് എത്രമാത്രം നന്നായി ഫിൽട്ടർ ചെയ്യുന്നുവെന്ന് ഇത് പറയും പവർ പിന്നുകളിലും ഒരു ശബ്ദമുണ്ടാകും ഉദാഹരണത്തിന് 120 ഹെർട്സ് വേഗതയിൽ 100 മില്ലി വോൾട്ട് അലകളുടെ 12 വോൾട്ട് വിതരണം ഉണ്ടെന്നു കരുതുക Op amp സർക്യൂട്ടിന്റെ ഈ പ്രഭാവം എങ്ങനെയാണു Op amp സർക്യൂട്ടിൽ ഇത് എങ്ങനെ ബാധിക്കും നമ്മൾക്ക് 90 6 dB യുടെ PSRR ഉണ്ടായിരുന്നു അതായത് 63000 അതിനാൽ ഇൻപുട്ട്ൽ കാണുന്ന ഓളങ്ങൾ 63000 എന്ന ഘടകം കൊണ്ട് കുറയും അതിനാൽ 100 മില്ലി വോൾട്ട് ഓളങ്ങളും 96 ഡിബിയുടെ പിഎസ്ആർആറും ഉപയോഗിച്ച് ഒപ് ആം ഇൻപുട്ടിൽ 1 6 മൈക്രോ വോൾട്ട് ഓളങ്ങൾ കാണുവാൻ സാധിക്കും അതിനാൽ 100 ന്റെ നേട്ടത്തിന് ഒപി ആമ്പിലേക്ക് ഇൻപുട്ട് ഇല്ലാതിരിക്കുമ്പോൾ പോലും 160 മൈക്രോ വോൾട്ടിന്റെ ഓളങ്ങൾ ഉണ്ടാകും അതിനാലാണ് വൈദ്യുതി വിതരണം നന്നായി ഫിൽട്ടർ ചെയ്യേണ്ടതും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു നല്ല പിഎസ്ആർആർ ഉണ്ടായിരിക്കുന്നതും അതിനാൽ മിക്ക സർക്യൂട്ടിലും നിങ്ങൾ പറയും വളരെ നല്ല വൈദ്യുതി വിതരണ വോൾട്ടേജ് കണ്ടെത്തൽ അനുപാതമുള്ള വൈദ്യുതി വിതരണം ഉപയോഗിക്കണമെന്ന് അതിനാൽ ഒരു ഊർജ്ജ വിതരണത്തിലേക്ക് വരുന്ന ശബ്ദം ശരിയായി ശ്രദ്ധിക്കുക ഇപ്പോൾ ഇത് സാധാരണയായി 120 ഹെർട്സ് എന്ന് വ്യക്തമാക്കുന്നു എന്നാൽ ഇത് ഉയർന്ന ആവൃത്തിയിൽ കുറയുന്നു ഇത് വൈദ്യുതി വിതരണ വോൾട്ടേജ് നിരസിക്കൽ അനുപാതത്തെക്കുറിച്ചാണ് പറയുന്നത് എന്താണ് ക്ഷണിക പ്രതികരണം ക്ഷണികമായ പ്രതികരണം എന്നുവെച്ചാൽl പൾസ് ഇൻപുട്ടിനോട് Op amp എത്ര വേഗത്തിൽ പ്രതികരിക്കുമെന്നതിനെക്കുറിച്ചുള്ള ഒരു ആശയം ആണ് ഇത് അവിടെത്തന്നെ അത് ക്ഷണികമാണ് അതിനർത്ഥം ആ ഉയർച്ച സമയം സിഗ്നലിൽ നിന്ന് 10 ശതമാനത്തിൽ നിന്ന് 90 ശതമാനത്തിലേക്ക് പോകാൻ എടുക്കുന്ന സമയമായിരിക്കാം ഞാൻ ഇൻപുട്ട് ശരിയായി പ്രയോഗിച്ചാൽ ഈ ഒപ് ആമ്പുകൾ എത്ര വേഗത്തിലാണ് പ്രതികരിക്കുന്നത് എന്ന് പറയട്ടെ അത് നിങ്ങളുടെ ക്ഷണിക പ്രതികരണമാണ് അതിനാൽ തൽക്ഷണ പ്രതികരണം വേഗത്തിലാണെങ്കിൽ output വോൾട്ടേജിലെ മാറ്റം എനിക്ക് തുടർച്ചയായി കാണാനാകും അതിനാൽ സ്ലീവ് റേറ്റ് എന്ന് വിളിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം എന്താണ് സ്ലീവ് റേറ്റ് ഓപ് ആമ്പിന് എത്ര വേഗത്തിൽ മാറാൻ കഴിയും ഇത് മൈക്രോസെക്കൻഡിൽ വോൾട്ടുകളിൽ അളക്കുന്നു ഇത് നിങ്ങൾക്ക് പരമാവധി ആവൃത്തിയെക്കുറിച്ചും ആംപ്ലിറ്റ്യൂഡ് സിഗ്നലിനെക്കുറിച്ചും ഒരു ആശയം നൽകും വികൃതമായ അവകാശമില്ലാതെ output കൈകാര്യം ചെയ്യാൻ കഴിയും LM 741 ന്റെ കാര്യത്തിൽ സാധാരണഗതിയിൽ സ്ലീവ് നിരക്ക് മൈക്രോസെക്കൻഡ്ന് 0 5 വോൾട്ട് വരെയാണ് അതിനാൽ നിങ്ങൾക്ക് 10 കിലോ ഹെർട്സ് 10 വോൾട്ട് പീക്ക് ടു പീക്ക് സൈൻ വേവ് outputൽ വോൾട്ടേജ് 0 ക്രോസിംഗായി മാറ്റുന്ന വേഗതയേറിയ പോയിന്റ് ഉണ്ടെങ്കിൽ മാറ്റത്തിന്റെ നിരക്ക് dVdt എന്നാൽ മൈക്രോസെക്കന്റിന് 0 63 വോൾട്ട് ആയിരിക്കും അതിനാൽ മൈക്രോസെക്കന്റിന് 0 63 വോൾട്ട് സാധാരണ മൂല്യമായ ഡാറ്റാഷീറ്റിൽ ഉള്ളതിനാൽ 10 വോൾട്ട് പീക്ക് ടു പീക്ക് സൈൻ വേവ് 0 ക്രോസിംഗുകളിൽ ഒരു വികലമാകാൻ നല്ല സാധ്യതയുണ്ട് വക്രീകരണം കൂടാതെ പ്രവർത്തിക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വോൾട്ടേജ് കുറയ്ക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ആവൃത്തി കുറയ്ക്കുക എന്നതാണ് അതിനാൽ എന്റെ output മൈക്രോസെക്കന്റിന് 0 63 വോൾട്ട് ആണെങ്കിലും എന്റെ സ്ലീവ് നിരക്ക് മൈക്രോസെക്കന്റിന് 0 5 മൈക്രോസെക്കൻഡ് വോൾട്ട് ആയിരിക്കണമെന്ന് എന്റെ സ്പെസിഫിക്കേഷൻ പറയുന്നുവെങ്കിൽ 0 ക്രോസിംഗിന്റെ ക്രോസിംഗിൽ വികലമാകാനും സാധ്യതയുണ്ട് വികലമാകാം Op amp ഓപ്പറേറ്റിംഗ് നടത്താം വക്രീകരണം കുറയ്ക്കുക ആവൃത്തി കുറയ്ക്കുക എന്നതാണ് നമുക്ക് ആവശ്യമുള്ളത് വീണ്ടും LM741 ഒപ്പ് ആമ്പായി കണക്കാക്കപ്പെടുന്നു നിങ്ങൾക്ക് ഒരു നാനോസെക്കന്റിന് 1 വോൾട്ട് അധികമുള്ള സ്ലീവ് റേറ്റ് ഉള്ള ഒരു ഒപ ആമ്പ് ലഭിക്കും അടുത്ത ഒരു ബാൻഡ്വിഡ്ത്ത് അല്ലെങ്കിൽ ബാൻഡ്വിഡ്ത്ത് ഉൽപ്പന്നം നമുക്ക് നോക്കാം ചെറിയ സിഗ്നലുകൾക്കായുള്ള ആവൃത്തിയുടെ ഒരു പ്രവർത്തനമെന്ന നിലയിൽ ഒരു ഒപിയുടെ നേട്ടം ഇതിനർത്ഥം ഒരു മെഗാ ഹെർട്സ് ഇൻപുട്ടിനൊപ്പം പരമാവധി നേട്ടം 1 ആണ് എന്നാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഈ നേട്ടം 1 ൽ കുറവാണ് കാരണം ഉൽപ്പന്നത്തിന്റെ നേട്ടം മൂന്ന് ഡിബി ഡെസിബെൽ മുതൽ 0 3 ഡിബി പോയിന്റ് ആയി നിർവചിക്കപ്പെടുന്നു 3 ഡിബി എന്താണ് അല്ലെങ്കിൽ യഥാർത്ഥ മൂല്യത്തിന്റെ 0 707 വോൾട്ടേജ് കുറയുന്നത് എവിടെയാണ് നമ്മൾ ഇതിനകം കണ്ടത് ഇൻപുട്ട് സിഗ്നൽ 100 കിലോ വാട്ട് ആയിരുന്നെങ്കിൽ പരമാവധി നേട്ടം 10 ആയിരിക്കും അതായത് 10 കിലോ ഹെർട്സ് ഇൻപുട്ട് പരമാവധി നേട്ടം 10 ശരിയല്ലേ അതിനാൽ ഇത് വൈദ്യുതി വിതരണത്തിൽ നിന്ന് ലോഡ് ചെയ്യാത്തപ്പോൾ നിങ്ങളുടെ ബാൻഡ് വീതിയെക്കുറിച്ചോ ബാൻഡ് ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രൊഡക്റ്റ് സപ്ലൈ കറന്റിനെക്കുറിച്ചോ ആണ് പറയുന്നത് അതായത് ഒപ് ആമ്പിൽ ഒരു ലോഡും നിങ്ങളെ വിളിക്കാത്തപ്പോൾ അതിനാൽ Op amp ലേക്ക് ലോഡ് ഇല്ലാത്തപ്പോൾ ഒരു കറന്റ് കടക്കുന്നു അതിനാൽ ഇത് നിങ്ങളുടെ സപ്ലൈ കറന്റാണ് 10 മൈക്രോ ആമ്പിയറിൽ താഴെ പ്രവർത്തിക്കുന്ന കുറഞ്ഞ ഒപ്പ് ആമ്പുകൾ ലഭ്യമാണ് സാധാരണയായി വേഗതയേറിയ ഒപ്പ് ആമ്പു കൂടുതൽ ശക്തിയിൽ പ്രവർത്തിക്കുന്നു ഇത് വ്യക്തമാണ് അതിനാൽ ഡാറ്റാഷീറ്റിൽ നമ്മൾ നോക്കുന്ന ചില പാരാമീറ്ററുകൾ ഇവയാണ് അതിനാൽ നമ്മൾ വേഗത്തിൽ തിരിച്ചുപോയി ഡാറ്റാഷീറ്റിലെ പാരാമീറ്ററുകൾ കൃത്യമായി എവിടെയാണെന്ന് നോക്കാം ഈ പാരാമീറ്ററുകൾക്കു ഇപ്പോൾ സവിശേഷതകൾ ഉണ്ടോ അവയ്ക്കു അർത്ഥമുണ്ടോ എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഡാറ്റ ഷീറ്റുകൾ നോക്കി കണ്ടെത്തും തിരികെ പോയി ഡാറ്റാ ഷീറ്റിൽ നൽകിയിരിക്കുന്ന പാരാമീറ്ററുകളോ സവിശേഷതകളോ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് നോക്കുക LM741 ന്റെ ഡാറ്റാ ഷീറ്റിൽ നൽകിയിരിക്കുന്ന പാരാമീറ്ററുകൾ എന്താണെന്നും അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾ എന്താണെന്നും നമുക്ക് വേഗത്തിൽ കാണാം ഈ പ്രത്യേക മൊഡ്യൂൾ നമ്മൾ എല്ലാം അവസാനിപ്പിക്കും അതിനാൽ സ്ലൈഡ് വീണ്ടും കാണാം ഇവിടെ നിങ്ങൾ കാണുന്നതെന്താണ് Characteristics സപ്ലൈ വോൾട്ടേജിലേക്ക് നിങ്ങൾ പോയാൽ ഈ output കാണുവാൻ സാധിക്കും അതിനാൽ വൈദ്യുതി വിസർജ്ജന താപനില ശ്രേണി നമ്മൾ കണ്ടു ഇപ്പോൾ നമ്മൾക്ക് ശരിയായി അറിയാവുന്ന ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് നിങ്ങൾ ഇവിടെ കാണുകയാണെങ്കിൽ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജിന്റെ പ്രഭാവം എങ്ങനെ പരിഹരിക്കാനാകും ഓഫ്സെറ്റ് കറന്റിന്റെ പ്രഭാവം നമുക്ക് നികത്താനാകും ബയസ് കറന്റിന്റെ പ്രഭാവം നികത്താം ഇൻപുട്ട് പ്രതിരോധം എന്താണ് ഇൻപുട്ട് വോൾട്ടേജ് ശ്രേണി എന്താണ് Output ഷോർട്ട് സർക്യൂട്ട് കറന്റ് എന്താണ് എന്താണ് വോൾട്ടേജ് സ്വിംഗ് സാധാരണ മോഡ് നിരസിക്കൽ അനുപാതം എന്താണ് വൈദ്യുതി വിതരണ നിരസിക്കൽ അനുപാതം എന്താണ് സ്ലീവ് നിരക്ക് എന്താണ് ബാൻഡ്വിഡ്ത്ത് എന്താണ് ഊർജ്ജ ഉപഭോഗം എന്താണ് എന്താണ് വിതരണ കറന്റ് ഇപ്പോൾ സ്ലൈഡുകളിൽ നമ്മൾ കണ്ടതെല്ലാം കാണാൻ കഴിയും സ്ലൈഡുകളിൽ എല്ലാം നമ്മൾ കണ്ടു അതേ രീതിയിൽ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് വോൾട്ടേജ് ഡ്രിഫ്റ്റ് നിയമം സിഎംആർആർ കാരണം CMRRൽ പവർ സപ്ലൈ റിജക്ഷൻ റേഷ്യോയിലെ കവറേജ് സർക്യൂട്ട് കറന്റിലെ output ഉറവിടം അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ ഷീറ്റിനൊപ്പം നൽകിയ കാര്യങ്ങൾ എങ്ങനെ ശരിയായി പ്രവർത്തിക്കുന്നുവെന്ന് മനസിലാക്കാൻ കഴിയും ഡാറ്റാഷീറ്റിലെ കുറഞ്ഞത് ചില പാരാമീറ്ററുകളെങ്കിലും ഡാറ്റാഷീറ്റ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുമെന്ന ആശയം അതായിരുന്നു അതേ സമയം ആ പ്രത്യേക ഐസിയുടെ ഓർഡറിംഗ് വിവരങ്ങൾ എന്താണെന്നും ഡാറ്റാ ഷീറ്റിൽ നൽകിയിരിക്കുന്നു അതിനാൽ ഇതുവരെ നമ്മൾ കണ്ടത് എങ്ങനെയാണ് ഡാറ്റാ ഷീറ്റിൽ സ്വഭാവസവിശേഷതകളുടെ പാരാമീറ്ററുകൾ നൽകിയിരിക്കുന്നത് എന്ന് കണ്ടു നമ്മളുടെ output നഷ്ടപരിഹാരത്തിനായി ഈ സവിശേഷതകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് മനസിലാക്കാൻ കഴിയും അതായത് നമ്മളുടെ output 0 ആകുകയോ output ശൂന്യമാക്കുകയോ ചെയ്യുമ്പോൾ അതിനാൽ ഇൻപുട്ട് ബയസ് കറന്റ് ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ് ഇൻപുട്ട് ഓഫ്സെറ്റ് കറന്റ് എന്നിവ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ട് ടെർമിനലുകളും ഇൻപുട്ട് നിലത്തുണ്ടാകുമ്പോൾ നമുക്ക് output വോൾട്ടേജ് എങ്ങനെ അസാധുവാക്കാമെന്ന് മനസിലാക്കണം output വോൾട്ടേജിലെ മാറ്റം എങ്ങനെ സംഭവിക്കുമെന്ന് നമ്മൾ മനസിലാക്കണം ഞാൻ താപനില ശരിയായി മാറ്റുകയാണെങ്കിൽ ഓഫ്സെറ്റ് പ്രത്യേക താപനിലയിൽ പോലും ശൂന്യമാകും പ്ലോട്ടുകൾ അല്ലെങ്കിൽ ആവൃത്തി മൊത്തത്തിലുള്ള പ്രകടനത്തെ എങ്ങനെ ബാധിക്കുമെന്ന് നമ്മൾ മനസിലാക്കേണ്ടതുണ്ട് അതിനാൽ മനസിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് വളരെയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട് കൂടാതെ ഓപ്പറേഷൻ ആംപ്ലിഫയർ എന്ന് വിളിക്കുന്ന ഈ പ്രത്യേക ആംപ്ലിഫയർ മനസിലാക്കാൻ നമ്മൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് അതിനാൽ ഈ പ്രത്യേക കോഴ്സിനായി ഈ പ്രത്യേക തിയറി ക്ലാസ്സിനായി നിങ്ങൾ മുഴുവൻ പ്രഭാഷണ പരമ്പരകളിലൂടെയും പോയാൽ ഓപ്പറേഷൻ ആംപ്ലിഫയറുകളുടെ മേഖലയിൽ കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഒരു ഇൻഡിക്കേറ്റർ സർക്യൂട്ട് നൽകുമ്പോൾ കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് എങ്ങനെ അറിയാം എന്താണ് പ്രോസസ് ഫ്ലോ അല്ലെങ്കിൽ ഒരു ഇൻഡിക്കേറ്റർ സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ഉപകരണം എങ്ങനെ നിർമ്മിക്കാമെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് പറയാൻ കഴിയും പ്രോസസ്സ് ഫ്ലോ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഇപ്പോൾ നമുക്കറിയാം എങ്ങനെ സിലിക്കൺ ഡൈ ഓക്സൈഡ് വളർത്താമെന്ന് നമ്മൾക്കറിയാം നമുക്ക് എങ്ങനെ ഒരു ലോഹം നിക്ഷേപിക്കാം ലിത്തോഗ്രാഫി എങ്ങനെ ചെയ്യാമെന്ന് നമുക്കറിയാം ഒരു മോസ്ഫെറ്റ് എങ്ങനെ കെട്ടിച്ചമച്ചതാണെന്ന് നമുക്കറിയാം നമുക്ക് n ചാനൽ കെട്ടിച്ചമയ്ക്കാം p ചാനൽ കെട്ടിച്ചമയ്ക്കാം മോസ്ഫെറ്റ് അപചയം നമ്മൾക്കറിയാം കൂടാതെ മോസ്ഫെറ്റിന്റെ പ്രയോഗം നമ്മൾക്കറിയാം അത് ട്രാൻസ്ഫർ സ്വഭാവസവിശേഷതകൾ നമ്മൾക്കറിയാം current മിറർ നമ്മൾക്കറിയാം CMOS ഒരു ഗേറ്റ് അല്ലാത്ത രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമ്മൾക്കറിയാം അതിനാൽ ഈ സിദ്ധാന്തത്തിന് പുറമെ 30 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ ഹ്രസ്വ കാലയളവിൽ നമ്മൾ മൂടിവയ്ക്കാൻ ശ്രമിച്ചുവെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നമ്മൾ കുറച്ച് പരീക്ഷണങ്ങൾ നടത്തും അതിനാൽ സർക്യൂട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്നും പരീക്ഷണങ്ങൾ എങ്ങനെ നടത്താമെന്നും നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ സിദ്ധാന്തം എങ്ങനെയാണ് ഉള്ളതെന്നും നമ്മൾ മനസിലാക്കുന്നു നമ്മൾ ചില സിമുലേഷനുകൾ ചെയ്യുന്നു മാത്രമല്ല നമ്മൾ ബ്രെഡ്ബോർഡിൽ ചില പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യും ഞാൻ നിങ്ങളെ അടുത്ത ക്ലാസ്സിൽ കാണും അതുവരെ നിങ്ങൾ ശ്രദ്ധിക്കൂ ബൈ